എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആഴ്ച 8 മൊഡ്യൂൾ നമ്പർ 4 പ്രഭാഷണ നമ്പർ 46 ആണ് ഞാൻ ഐഐടി കാൺപൂരിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ രവി ചന്ദ്രനാണ് കഴിഞ്ഞ 8 ആഴ്ചകളായി നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നു ഇത് സമാപന ആഴ്ചയാണ് തുടർന്ന് ഞാൻ അവതരണ വൈദഗ്ധ്യത്തോടെ ആരംഭിച്ചു ഈ മൊഡ്യൂൾ ഈ വിഷ്വലുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഈ പ്രഭാഷണം അവസാനിപ്പിക്കും ശരീരഭാഷയ്ക്കൊപ്പം നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഒരു വശമാണ് വിഷ്വൽ ഇത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് അവലോകനം ചെയ്യാം മുമ്പത്തെ പ്രഭാഷണത്തിൽ പൊതുപ്രസംഗത്തിൽ ശരീരഭാഷയുടെ പ്രശ്നം ഞാൻ അഭിസംബോധന ചെയ്തു ശരീരഭാഷയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ചില ആളുകൾ വളരെ ഫലപ്രദമായ ശരീരഭാഷ ഉപയോഗിക്കുകയും വളരെ വഞ്ചനാപരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് വളരെ നിർണായകമാണ് ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും കുറഞ്ഞ ഉള്ളടക്കമുള്ള വെറും പ്രഭാഷണ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുകയും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ശക്തമായ ശരീരഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഒരു പ്രൊഫഷണലാകുന്നതിന് നിങ്ങളുടെ ഉള്ളടക്കവും നിങ്ങളുടെ ശരീരഭാഷയും ഒരുപോലെ മികച്ചതായിരിക്കണമെന്ന് ഞാൻ ഊന്നിപ്പറഞ്ഞു നിങ്ങളുടെ ശരീരഭാഷ മികച്ചതും ഫലപ്രദവുമാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കണ്ണാടിയുടെ മുന്നിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മൊബൈലിൽ പകർത്തിയ വീഡിയോകൾ ഉപയോഗിക്കാം തുടർന്ന് അത് പരിശോധിക്കാം പക്ഷേ കണ്ണാടി പോലെ ഒന്നുമില്ല കാരണം നിങ്ങൾ ഇത് തത്സമയം ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ഉചിതമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം സന്ദർഭത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കുക നിങ്ങളുടെ വേദിയിലേക്ക് പോകുമ്പോൾ മറയ്ക്കരുത് മറയ്ക്കരുത് തുറന്നുപറയുകയും സത്യസന്ധത പുലർത്തുകയും എല്ലാവരുമായും കണ്ണ് സമ്പർക്കം പുലർത്തുകയും ചെയ്യുക ആർക്കെങ്കിലും കണ്ണുമായി സമ്പർക്കം പുലർത്താൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽപ്പോലും ആ വ്യക്തിയുടെ നെറ്റിയിലേക്ക് നോക്കാൻ ശ്രമിക്കുക അതിനാൽ നേരിട്ടുള്ള നേത്ര സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കരുത് തുടക്കത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായി നേത്ര സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക പതുക്കെ നിങ്ങൾ പ്രേക്ഷകരിലൂടെ വ്യാപിക്കാൻ ശ്രമിക്കുന്നു ഇത് ഒരു ത്രികോണത്തിന്റെ രൂപത്തിലായിരിക്കാം കോണുകൾ തിരിച്ചറിയുക അത് ഒരു ചതുരത്തിന്റെ രൂപത്തിലായിരിക്കാം മധ്യത്തിൽ ആരെയെങ്കിലും തിരിച്ചറിയുകയും തുടർന്ന് നിങ്ങളുടെ കണ്ണുകൾ മാറ്റുകയും ചെയ്യാം പക്ഷേ അത് നിങ്ങൾ കണ്ണുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രേക്ഷകർക്ക് നൽകും ഒരു കാൽ മുകളിലേക്കും മറ്റേ കാൽ താഴേക്കുമുള്ള കാലുകൾ മാറ്റരുത് അതിനാൽ അത്തരം ഒരു നിമിഷം ചെയ്യരുത് എന്തെങ്കിലും വളരെ ദൃഢമായി പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ പരിഭ്രാന്തനാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യവും മുറുകെ പിടിക്കരുത് ചിലപ്പോൾ ആളുകൾ അവരുടെ മുന്നിൽ വച്ചിരിക്കുന്ന കസേരയിൽ പിടിക്കുന്നു അവർ അവരുടെ മുന്നിൽ വച്ചിരിക്കുന്ന മേശയിൽ പിടിക്കുന്നു അവർ ചോക്ക് കഷണങ്ങൾ പോലും പിടിക്കുന്നു അവർ പുകവലിക്കാൻ പോകുന്നതുപോലെ അത് ഒരു സിഗരറ്റ് പോലെ കാണപ്പെടുന്നു അവർ സാധനങ്ങൾ പിടിക്കുന്നു അവർ പെൻസിൽ പിടിക്കുന്നു അവർ സ്കെയിലിൽ പിടിക്കുന്നു അവർ പോയിന്റർ പിടിക്കുന്നു ഇപ്പോൾ അവ മേശപ്പുറത്ത് വയ്ക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം അവ ഉപയോഗിക്കുക അതിനാൽ ഒന്നും മുറുകെ പിടിക്കരുത് എല്ലായ്പ്പോഴും പ്രേക്ഷകരെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അവരിൽ നിന്ന് വളരെ സൌഹാർദ്ദപരമായ പ്രതികരണം സൃഷ്ടിക്കുകയോ പ്രേക്ഷകരെ അഭിമുഖീകരിക്കാതിരിക്കുകയോ ചെയ്യുക അതിനാൽ പ്രേക്ഷകരെ അഭിമുഖീകരിക്കാനും കൈപ്പത്തി തുറന്നിരിക്കാനും നിങ്ങൾ ധൈര്യമായിരിക്കണം അതിനാൽ അത് അത് അടയ്ക്കാൻ ശ്രമിക്കുക അത് കടക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ കൈ പോക്കറ്റിൽ ഇടാൻ ശ്രമിക്കരുത് അത് തുറന്നിടുക ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കുക വാസ്തവത്തിൽ പ്രേക്ഷകരിൽ എല്ലാവർക്കും നിങ്ങളെ വ്യക്തമായി കേൾക്കാനും സാധാരണ വേഗത നിലനിർത്താനും കഴിയുന്നുണ്ടോ പ്രേക്ഷകരിൽ എല്ലാവർക്കും നിങ്ങളെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു സാധാരണ വേഗത നിലനിർത്തുക വളരെ വേഗത്തിൽ സംസാരിക്കരുത് മനഃപൂർവ്വം വളരെ മന്ദഗതിയിലാകരുത് രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ പരിഭ്രാന്തനാണെന്ന് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു ഒരിക്കലും ചരിഞ്ഞുപോകരുത് പകരം ഉറച്ച ഒരു കാര്യത്തിന് പകരം ചരിഞ്ഞുപോകുന്നത് താഴേക്ക് വീഴുകയും തുടർന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവായതിനാൽ വളരെ താഴ്ന്നതായി കാണപ്പെടുകയും ചെയ്യുന്നു ഒരിക്കലും പ്രേക്ഷകരുടെ അടുത്തേക്ക് തിരിയരുത് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക്ബോർഡിൽ എന്തെങ്കിലും കാണിക്കാൻ പോകുകയാണെങ്കിലും അവരുമായി പകുതി കണ്ണിന്റെ സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക ഒരിക്കലും പുറം തിരിക്കരുത് അങ്ങനെ നിങ്ങൾക്ക് പ്രേക്ഷകരുമായുള്ള സമ്പർക്കം പൂർണ്ണമായും നഷ്ടപ്പെടും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളുടെ ഉപയോഗം നോക്കാം ആദ്യം ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ദൃശ്യങ്ങളാണ് ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ ഭാഗം നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാത്തതിൽ നിങ്ങൾ വാക്കാലുള്ള ഭാഗം ഉപയോഗിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾ ഫോട്ടോഗ്രാഫുകൾ കാണിക്കുന്നു നിങ്ങൾക്ക് ഗ്രാഫുകൾ പൈ ചാർട്ടുകൾ മാപ്പുകൾ ഏത് തരത്തിലുള്ള രേഖാചിത്രങ്ങളും ഉപയോഗിക്കാം തുടർന്ന് ഫ്രണ്ടൽ വ്യൂ ഏരിയൽ വ്യൂ പോലുള്ള ക്രോസ് സെക്ഷണൽ ഡയഗ്രം ഒരു മോഡൽ പോലും വലുപ്പത്തിൽ വലുതായ ഒന്നിന്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നാൽ നിങ്ങൾ ഒരു ചെറിയ മൊഡ്യൂളും ഒരു വീടിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിന്റെയോ ബ്ലൂ പ്രിന്റും കാണിക്കുന്നു ഇപ്പോൾ വാക്കുകളില്ലാത്ത ഈ കാര്യങ്ങൾ എന്നാൽ അവ ദൃശ്യങ്ങളുടെ രൂപത്തിൽ കാണിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവതരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചിത്രം ഇടുകയാണെങ്കിൽ വാക്കുകൾ മാത്രം ഇടുന്നതിനുപകരം എന്നാൽ അപ്പോൾ നിങ്ങൾ മനപ്പൂർവ്വം വളരെ സുന്ദരിയായ ഒരു നടിയുടെ മുഖം പോലെ എന്തെങ്കിലും ഇടരുത് അതിനാൽ എല്ലാവരും അത് നോക്കുന്നു പക്ഷേ അവർക്ക് പ്രധാന പോയിന്റ് നഷ്ടപ്പെടും നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പൂർണ്ണമായും ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയും അത് പൂർണ്ണമായും അനുചിതമാവുകയും ചെയ്യും തീർച്ചയായും ആളുകൾ അത്തരം ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കും പക്ഷേ അപ്പോൾ മുഴുവൻ സമ്പൂർണ്ണ സന്ദേശം നഷ്ടപ്പെടുകയും അത്തരം അനുചിതമായ ചിത്രങ്ങൾ ഉപയോഗിച്ചതിന് ആളുകൾ നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യും അതിനാൽ ദൃശ്യങ്ങളുടെ ഉദ്ദേശ്യം എന്താണ് ദൃശ്യങ്ങൾ പ്രധാന പോയിന്റുകൾ ചിത്രീകരിക്കുന്നു അതിനാൽ ഒരു ചിത്രം കാണിക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം ഒരു ചിത്രം 1000 വാക്കുകൾ വിലമതിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു നിരവധി വാക്കുകളിൽ എന്തെങ്കിലും വിവരിക്കുന്നതിനുപകരം അവർക്ക് ഒരു ചിത്രം കാണിക്കുക അത് പ്രധാന പോയിന്റുകൾ ചിത്രീകരിക്കും വാക്കാലുള്ള സന്ദേശം ശക്തിപ്പെടുത്താനും ചിത്രങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾ ഒരു വിഷ്വൽ രൂപത്തിൽ അവർക്ക് കാണിക്കുന്ന എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രേക്ഷകരുടെ താൽപര്യം ഉത്തേജിപ്പിക്കാൻ ഉപയോഗിക്കാം അതിനാൽ അത് എന്താണെന്ന് അറിയാത്ത ചില ആളുകൾക്ക് ഒരു പുതിയ ആശയം അവതരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആദ്യം അവരെ ചിത്രം കാണിക്കാം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്താണ് പ്രവർത്തനം എന്തുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം നിങ്ങൾക്ക് പ്രേക്ഷകരുടെ താൽപര്യം ഉത്തേജിപ്പിക്കാൻ കഴിയും അവതരണം അൽപ്പം ഏകതാനമാകുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു വിഷ്വൽ കാണിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു വിഷ്വൽ ഉപയോഗിച്ച് പ്രേക്ഷക ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനാൽ ഇവയാണ് ഞങ്ങൾ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്ന നാല് പ്രധാന ഉദ്ദേശ്യങ്ങൾ എന്നാൽ നിങ്ങൾ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഏതുതരം മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം അതിനാൽ പവർ പോയിന്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തരം വിഷ്വൽ ആണ് ഞാൻ നീണ്ട വാക്യങ്ങളെക്കുറിച്ചും അതെല്ലാം സംസാരിക്കുമ്പോഴും ദൃശ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ പോലും ഞാൻ നോക്കുന്നു കാരണം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ പവർ പോയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നീണ്ട വാക്യങ്ങൾ ഉപയോഗിക്കരുത് നീണ്ട വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിനുപകരം ബുള്ളറ്റുകൾ ഉപയോഗിക്കുക കീവേഡുകളും ശൈലികളും മാത്രം എടുക്കുക ഉചിതമായ ഫോണ്ട് സൈസ് ഉപയോഗിക്കുക ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കുറഞ്ഞത് 24 ഫോണ്ട് വലുപ്പമെങ്കിലും കാണിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത് തലക്കെട്ടുകൾ ചിലപ്പോൾ 2836 ന് മുകളിലും പരിവർത്തന തലക്കെട്ടുകൾ 2832 നും ഇടയിലുമാണ് എന്നാൽ 1214 അവ വായിക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ അവയെ പവർ പോയിന്റിൽ പ്രേക്ഷകർ വലുതാകാൻ സാധ്യതയുള്ളപ്പോൾ അവർ അവസാനം ഇരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അവർക്ക് ഫോണ്ട് വലുപ്പം കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ മെനുവിലേക്ക് പോകേണ്ടതുണ്ട് അത് എത്ര വലുതാണെന്നും അവർക്ക് നിങ്ങളുടെ അവതരണം എങ്ങനെ എളുപ്പത്തിൽ നോക്കാമെന്നും അവസാന വരിയിൽ നിന്ന് പോലും കാണാമെന്നും തിരിച്ചറിയുക അടുത്തത് ഉചിതമായ നിറങ്ങളാണ് അതിനാൽ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ എന്തെങ്കിലും കാണിക്കാൻ പോകുകയാണെന്ന് കരുതുക തുടർന്ന് നിങ്ങൾ പശ്ചാത്തലത്തിൽ ഇളം നിറങ്ങൾ മഞ്ഞ ഇളം മഞ്ഞ ഇളം പിങ്ക് എന്നിവ ഉപയോഗിക്കുന്നു അതിനാൽ അവർക്ക് കാണാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഫോണ്ടിന്റെ കാര്യത്തിൽ കടും നീലയും മഞ്ഞയും ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ അവർക്ക് വ്യത്യാസം കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ കാണിക്കുമ്പോൾ അത് വൈരുദ്ധ്യമുള്ളതായിരിക്കണം അതിനാൽ ഉചിതമായ നിറങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ അവയ്ക്ക് ഫോണ്ടുകൾ വ്യക്തമായി കാണാൻ കഴിയും നിങ്ങൾ പവർ പോയിന്റ് സ്പെല്ലിൽ സ്ലൈഡുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ സ്ലൈഡും പരിശോധിക്കുക പവർ പോയിന്റിൽ പോകുന്ന ഏതെങ്കിലും സ്പെല്ലിംഗ് തെറ്റ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ വിദ്യാർത്ഥി ടൈപ്പ് ചെയ്തുവെന്നും അതാണ് തെറ്റ് ചെയ്തതെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല വാസ്തവത്തിൽ ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്വെയറുകൾ സ്പെല്ലിംഗ് തെറ്റുകൾക്ക് അടിവരയിടുകയും അത് ടൈപ്പ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് അത് തിരുത്താൻ കഴിയുകയും ചെയ്യും അതിനാൽ സ്ലൈഡുകളൊന്നും കാണിക്കരുത് സ്പെല്ലിംഗ് തെറ്റുകളുള്ള ഒരു ദൃശ്യവും കാണിക്കരുത് അവസാനത്തിലേക്ക് പോയി മുറിയുടെ നീളം തിരിച്ചറിയുന്നതിലൂടെ പോലും ദൃശ്യപരത പരിശോധിക്കുക നിങ്ങൾ വിഷ്വൽ കാണിക്കുമ്പോൾ അത് പവർ പോയിന്റാണെങ്കിലും പ്രേക്ഷകരോട് സംസാരിക്കുക വിഷ്വൽ നോക്കി സംസാരിക്കരുത് അങ്ങനെ ചെയ്യരുത് അതിനാൽ പ്രേക്ഷകരുമായി സംസാരിക്കുക ഉപകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ സംസാരിക്കുന്നത് നിർത്തുക അതിനാൽ ചിലപ്പോൾ ഓവർഹെഡ് പ്രൊജക്ടറിൽ ദൃശ്യങ്ങൾ കാണിക്കും അതിനാൽ നിങ്ങൾ ഒരെണ്ണം എടുത്ത് മറ്റൊന്ന് ഇടുന്നു ചിലപ്പോൾ പവർ പോയിന്റ് പോലും ചിലപ്പോൾ അത് നീക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ സംസാരിക്കരുത് ദൃശ്യത്തിലേക്ക് നോക്കരുത് സംസാരിക്കരുത് എല്ലായ്പ്പോഴും പ്രേക്ഷകരെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ഒരു വിഷ്വൽ കാണിക്കുകയാണെന്ന് നമുക്ക് പറയാം ഒന്നുകിൽ നിങ്ങൾ അത് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഒഎച്ച്പിയിൽ ഇടുകയോ ചെയ്യുന്നു തുടർന്ന് അവർക്ക് അത് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ ചിത്രമോ ഭൂപടമോ മറ്റോ ഇടുന്നു തുടർന്ന് പ്രേക്ഷകർ അത് നോക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കണക്ഷന്റെ കാര്യത്തിൽ വിഷ്വൽ കാണിക്കരുത് വിഷയം മാറുന്നതിനനുസരിച്ച് അത് നീക്കം ചെയ്ത് വിഷ്വൽ മാറ്റുക ദീർഘകാലത്തേക്ക് അത് ഉപേക്ഷിക്കരുത് കാരണം അതിന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംസാരത്തോടുള്ള താൽപര്യം നഷ്ടപ്പെടുകയും ചെയ്യും കാരണം അവർ ദൃശ്യത്തിലേക്ക് നോക്കുകയും ദൃശ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും ദൃശ്യത്തിന്റെ കാര്യത്തിൽ അതേ ചിന്തയോടെ തുടരുന്നു എന്നാൽ വാക്കാലുള്ള കാര്യത്തിൽ നിങ്ങൾ മറ്റൊന്നിലേക്ക് നീങ്ങി അതിനാൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കരുത് അവർക്ക് ഏകതാനത അനുഭവപ്പെടും വിഷ്വൽ എയ്ഡുകൾ വളരെക്കാലം ഉപേക്ഷിക്കരുത് അതിനാൽ നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അത് ഉപേക്ഷിക്കരുത് അതിനാൽ അത് അടയ്ക്കുക അത് അകറ്റി നിർത്തുക തുടർന്ന് നിങ്ങളുടെ സംസാരം തുടരുക അതിനാൽ ആ പ്രേക്ഷക ശ്രദ്ധ നിങ്ങളുടെ സംഭാഷണത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് ദൃശ്യത്തിലല്ല നിങ്ങൾ പവർ പോയിന്റോ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യമോ ഉപയോഗിച്ച് ഒന്നിനുപുറകെ ഒന്നായി നീക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നു ആരെങ്കിലും ചെയ്യും ആരാണ് അത് പ്രദർശിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ അത് ചെയ്യുമോ അല്ലെങ്കിൽ ആരെങ്കിലും അത് മാറ്റിക്കൊണ്ടിരിക്കും അതിനാൽ ആരാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് തിരിച്ചറിയുക ചിലപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളുടെ ഭാഗമായ വീഡിയോകൾ കാണിക്കാൻ കഴിയും അതിനാൽ ആനിമേറ്റഡ് പതിപ്പുകളുടെ ചിത്രപരമായ പ്രാതിനിധ്യം എന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം എടുക്കുകയാണോ അതോ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പോകുകയാണോ പ്രേക്ഷകരുടെ സമയം പാഴാക്കരുത് ക്രമീകരണത്തിനായി എടുക്കുന്ന ഈ സമയം കുറയ്ക്കുകയും ചെയ്യുക നിങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ മറ്റ് സപ്പോർട്ടിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ അവ പിൻനിരയിൽ ദൃശ്യമാണോ എന്ന് ചോദിക്കുക നിങ്ങൾക്ക് അത് പുറത്തെടുത്ത് പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ദൃശ്യമല്ലേ എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് മുൻവശത്തേക്ക് വരാൻ പറയാം അല്ലെങ്കിൽ കഴിയുമെങ്കിൽ വലുപ്പം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആകർഷകവും എന്നാൽ പ്രസക്തമല്ലാത്തതുമായ കാര്യങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ അവതരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ അവതരണത്തിന് പ്രസക്തമാണോ എന്നും ചോദിക്കുക ഒരു അവതരണം നൽകുന്നതിലും നിങ്ങൾക്ക് ഫലപ്രാപ്തി നഷ്ടപ്പെടും സപ്പോർട്ടിംഗ് മെറ്റീരിയലുകൾ ചെറുതാണോ എന്ന ചോദ്യം ചോദിക്കുക അതിനാൽ വിഷ്വൽ ഭാഗം ദൈർഘ്യമേറിയതാണെങ്കിൽ അവതരണത്തിന്റെ വാക്കാലുള്ള ഭാഗത്ത് നിന്ന് പ്രേക്ഷകരെ വളരെയധികം വ്യതിചലിപ്പിക്കില്ല അതിനാൽ നിങ്ങളുടെ അവതരണവുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് ശരിയായ സമയത്ത് വരുന്നുണ്ടോ അതോ തെറ്റായി വരുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പോൾ സങ്കീർണ്ണമായ ഡെറിവേഷൻ ഒഴിവാക്കുക ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും കാണിക്കുന്നില്ല എനിക്ക് ഒരു മാക്സ് ടീച്ചറെയോ സിദ്ധാന്തങ്ങളിൽ വളരെ നല്ല ഒരാളെയോ പോലും അറിയില്ല കൂടാതെ എല്ലാം പെട്ടെന്ന് നോക്കാനും ഇത് കാണിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസിലാക്കാനും കഴിയും ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുകയും പരിശോധിക്കുകയോ ഡിഡക്റ്റീവ് വർക്ക് ഉപയോഗിക്കുകയോ ചെയ്യുക ഇത് എന്താണെന്ന് തിരിച്ചറിയുക തുടർന്ന് ഇത് ചെയ്യരുത് അതിനാൽ ആശയക്കുഴപ്പത്തിലാകരുത് ശ്രദ്ധ വ്യതിചലിപ്പിക്കരുത് ഒരു ഡെറിവേഷൻ ഉപയോഗിച്ച് ഇതുപോലുള്ള സങ്കീർണ്ണമായ ഒന്നാക്കി മാറ്റരുത് ഇത് വിഷ്വൽ ഉപയോഗിക്കുന്നതിനുള്ള തെറ്റായ മാർഗമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രൊജക്ടറിനും സ്ക്രീനിനും മുന്നിൽ നിൽക്കുന്ന സ്ക്രീൻ മറയ്ക്കുക തുടർന്ന് നിങ്ങളുടെ നിഴൽ വീഴുകയും പ്രേക്ഷകർക്ക് കാണാൻ കഴിയാതെ വരികയും ചെയ്യുന്നു തുടർന്ന് അവർ നിങ്ങളോട് ദയവായി നീങ്ങാൻ കഴിയുമോ എന്ന് പറയുന്നു അതിനാൽ അത് വീണ്ടും ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഒന്നായിരിക്കും തുടർന്ന് നിങ്ങൾ കുറച്ച് ചിത്രം കാണിക്കുകയും തുടർന്ന് നിങ്ങൾ ചിത്രത്തിൽ നഷ്ടപ്പെടുകയും നിങ്ങൾ പൂർണ്ണമായും വ്യതിചലിക്കപ്പെടുകയും ചെയ്തു അതിനാൽ വ്യതിചലനങ്ങളിൽ നഷ്ടപ്പെടുന്നത് വളരെയധികം നീങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിനാൽ വിഷ്വൽ ഇവിടെ ഉണ്ട് അതിനാൽ നിങ്ങൾ ഈ വശത്തേക്ക് വരുന്നത് അനാവശ്യമായ ഒരു വ്യതിചലനമാണ് അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ശരീരഭാഷയിൽ ശ്രദ്ധ പുലർത്തുക അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ അതിനാൽ നിങ്ങൾ കാണിക്കുന്നതിൽ മുഴുകിയിരിക്കുക അതിനാൽ അവരുടെ ശരീരഭാഷയെ ആശ്രയിച്ച് നിങ്ങൾക്ക് അത് തുടരാൻ താൽപ്പര്യമുണ്ടോ അതോ നിങ്ങളുടെ തന്ത്രം മാറ്റണോ എന്ന് തീരുമാനിക്കാം അതിനാൽ അവർ തിരികെ വരികയോ അല്ലെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ താൽപ്പര്യമുള്ളതിനാൽ അധിക ദൃശ്യങ്ങൾ കാണിക്കാനുള്ള സമയമാണോ ഇത് അതിനാൽ പ്രേക്ഷകരുടെ ശരീരഭാഷയിൽ ശ്രദ്ധ പുലർത്തുക അത് നിങ്ങളുടെ ദൃശ്യങ്ങളിൽ അവർക്ക് ശരിക്കും താൽപ്പര്യമുണ്ടോ അതോ അവർക്ക് താൽപ്പര്യമില്ലായ്മയുണ്ടോ എന്ന് നിങ്ങളോട് പറയും ഇപ്പോൾ അവസാനത്തിലേക്ക് ഈ ദൃശ്യങ്ങളെല്ലാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചതിന് ശേഷം ചില അവതരണ പ്രായോഗികതകൾ മനസ്സിൽ വയ്ക്കുക പ്രത്യേകിച്ചും നിങ്ങൾ വളരെ അമച്വർ അനുഭവപരിചയമില്ലാത്ത അവതാരകനാണെങ്കിൽ നിങ്ങൾ ഒരു സെമിനാറിൽ ഒരു കോൺഫറൻസിൽ ഇന്ത്യയ്ക്കുള്ളിൽ മറ്റൊരു സ്ഥലത്ത് വിദേശത്ത് എവിടെയെങ്കിലും ഒരു അവതരണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ക്ഷണിക്കപ്പെടുകയും നിങ്ങൾ പോയി ഒരു അവതരണം നൽകുകയും നിങ്ങൾ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഫയൽ വളരെ വലുതാണെങ്കിൽ ആ ഫയൽ മുൻകൂട്ടി ഇമെയിൽ ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞത് അത് പരിവർത്തനം ചെയ്യുക അതിനാൽ പിഡിഎഫ് രൂപത്തിൽ വീണ്ടും നിങ്ങൾക്ക് അത് അയയ്ക്കാം അതിനാൽ നിങ്ങൾക്ക് ഏത് രീതിയും ഉപയോഗിക്കാം പക്ഷേ അത് അയയ്ക്കാൻ ശ്രമിക്കുക തുടർന്ന് വിശ്രമിക്കുക മാത്രമല്ല വിശ്രമിക്കുകയും ഞാൻ ഇപ്പോൾ ഫയൽ അയച്ചുവെന്ന് കരുതുകയും ചെയ്യുക അതിനാൽ അപകടകരമായ ഒരു നിർദ്ദേശമായ ഒന്നും ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകേണ്ടതില്ല കാരണം അത് ശരിയായി എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പാക്കണം പക്ഷേ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ അടുത്തേക്ക് എത്തിയില്ല എന്നതിന് സാധ്യതയുണ്ട് അതിനാൽ ഇമെയിൽ നഷ്ടപ്പെട്ടു അതിനാൽ ഇമെയിൽ പിൻവലിക്കാൻ കഴിഞ്ഞില്ല ഫയൽ തുറക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രശ്നവും സംഭവിക്കാം അതിനാൽ ഇത് ഒരു സ്റ്റാൻഡ്ബൈ മാത്രമാണ് എന്നാൽ സാധ്യമെങ്കിൽ സുതാര്യതയുടെ രൂപത്തിൽ നിങ്ങൾ ഒരു ഹാർഡ് കോപ്പി സൂക്ഷിക്കണം സാധ്യമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പിപിടി ഒരു പെൻഡ്രൈവിൽ സൂക്ഷിക്കണം സാധ്യമെങ്കിൽ അത് ഒരു ഡിസ്കിൽ സൂക്ഷിക്കുക അത് നീളമുള്ളതാണെങ്കിൽ ഡിവിഡിയിൽ എഴുതുകയോ പെൻഡ്രൈവിൽ വീണ്ടും പകർത്തുകയോ ചെയ്യുക ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിർദ്ദിഷ്ട ഫോണ്ടുകളും ചില മീഡിയകളും വേണമെങ്കിൽ അത് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഒരേ ഫോണ്ട് ഉപയോഗിക്കില്ലായിരിക്കാം കാരണം പതിപ്പ് വ്യത്യസ്തമായിരിക്കാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്തമായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് കുറച്ച് അനുയോജ്യത ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോയി ഒരു സ്റ്റാൻഡ്ബൈയായി മുൻകൂട്ടി എന്തെങ്കിലും അയയ്ക്കുന്നതാണ് നല്ലത് നിങ്ങൾ വേദിയിൽ എത്തുമ്പോൾ വേദി അനുഭവിക്കുകയും പ്രേക്ഷകർ വരുന്നതിന് മുമ്പ് അത് കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന എൽസിഡി പ്രൊജക്ടറിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഏത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അത് കണക്റ്റുചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഒരു തടസ്സവുമില്ലാതെ സ്വതന്ത്രമായി സുഗമമായി ഒഴുകുന്നുണ്ടോ എന്ന് മുഴുവൻ അവതരണവും പരിശോധിക്കുകയും ചെയ്യുക ഇതിനർത്ഥം നിങ്ങളുടെ അവതരണത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിൽ മറ്റുള്ളവർ വരുന്നതിന് മുമ്പുതന്നെ നിങ്ങൾ വേഗത്തിൽ റിഹേഴ്സൽ നടത്തുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പാക്കുകയാണെങ്കിൽ നിങ്ങൾ അവതരണം നൽകാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ടാകും നിങ്ങളുടെ അവതരണം എങ്ങനെ ക്രമീകരിക്കും അതിനാൽ നിങ്ങളുടെ അവതരണത്തിനായുള്ള തന്ത്രങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചില ദ്രുത ടിപ്പുകൾ ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാലാനുക്രമ രീതി ഉപയോഗിക്കുക എന്നതാണ് ഒരു മാർഗം അതിനാൽ പതിനേഴാം നൂറ്റാണ്ടിൽ ഇത് സംഭവിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇത് സംഭവിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇത് സംഭവിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ നിലവിൽ ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 21 ാം നൂറ്റാണ്ടിൽ ഇത് കാലക്രമത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലളിതമായി പറയാം അതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും എങ്ങനെ പെരുമാറുമെന്നതിന്റെ ചില വശങ്ങൾ അതിനാൽ ഈ ബുധനാഴ്ച പോലെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇങ്ങനെ സംഭവിക്കുന്നു അതിനാൽ ആദ്യത്തേത് ആദ്യം വരുന്ന തീയതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കാലഗണന നൽകാം നിങ്ങൾക്ക് പ്രശ്നകാരണ പരിഹാര രീതിയും ഉപയോഗിക്കാം അതിനാൽ മലിനീകരണ പ്രശ്നം ആളുകളെ വളരെയധികം ബാധിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ എന്താണ് മലിനീകരണത്തിന് കാരണമാകുന്നത് അത് എവിടെയാണ് കാരണമാകുന്നത് അതിനാൽ വായു മലിനീകരണം ജലമലിനീകരണം എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ മറ്റ് നിരവധി തരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട് എന്നാൽ ഈ രണ്ട് തരത്തിലുള്ള മലിനീകരണത്തിലേക്ക് ഞാൻ എന്റെ സംസാരം പരിമിതപ്പെടുത്തുകയാണെന്ന് നിങ്ങൾക്ക് പറയാം മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അതിനാൽ അതാണ് കാരണം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ പ്രശ്നം മലിനീകരണം എന്താണ് അതിന് കാരണമാകുന്നത് എന്താണ് പരിഹാരം നിങ്ങൾക്ക് ഈ പ്രോ കോൺ എന്നിവയും ഉപയോഗിക്കാം അതിനാൽ അനുകൂലമായും പ്രതികൂലമായും ഗുണങ്ങൾ ദോഷങ്ങൾ യോഗ്യതകൾ ദോഷങ്ങൾ നല്ല പോയിന്റുകൾ മോശം പോയിന്റുകൾ അതിനാൽ ഈ രീതിയും നല്ലതാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്ത് കോൺട്രാസ്റ്റ് കാണിക്കുകയും തുടർന്ന് ഏതാണ് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ അവതരണ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മറ്റൊരു ലളിതമായ രീതി സീക്വൻഷ്യൽ രീതി 123 ആണ് അതിനാൽ ഞാൻ നാല് പ്രധാന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഒന്നാമതായി അല്ലെങ്കിൽ ഒന്നാമതായി രണ്ടാമതായി മൂന്നാമതായി അവസാനമായി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നാലാമതായി തുടർന്ന് നിങ്ങൾ അവസാനിപ്പിക്കുക അതിനാൽ സീക്വൻഷ്യൽ മോഡൽ അതിനാൽ ഇവ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നവയാണ് നിങ്ങൾക്ക് ഇത് യോജിച്ച രീതിയിൽ നൽകാൻ കഴിയുമെന്ന് മനസിലാക്കാൻ പ്രേക്ഷകരെ സഹായിക്കുന്നു എന്നാൽ ആ ഫലപ്രദമായ അവതരണം നൽകാൻ ഓർക്കുക അത് നിങ്ങൾക്ക് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകും നിങ്ങൾ പരിശീലിക്കണം പരിശീലിക്കണം പരിശീലിക്കണം നിങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഫലപ്രദമാകും ഉള്ളടക്കം നൽകുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും നിങ്ങളുടെ ശരീരഭാഷയും കൂടുതൽ ഫലപ്രദമാകും ഇപ്പോൾ ഞാൻ ഈ മൊഡ്യൂൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള ചില അന്തിമ നുറുങ്ങുകളും മൊത്തത്തിലുള്ള നുറുങ്ങുകളും ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങൾ ഒരു പ്രൊഫഷണലാകുമ്പോൾ നിങ്ങൾ ഒരു വിദഗ്ധ പ്രഭാഷകനാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള വിഷയങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക തുടക്കത്തിൽ എളുപ്പത്തിൽ ലഭ്യമായ നിരവധി പുസ്തകങ്ങളിൽ നിന്നും മെറ്റീരിയലുകളിൽ നിന്നുമുള്ള വിഷയങ്ങൾ തയ്യാറാക്കുക ഉദാഹരണത്തിന് ഇന്റർനെറ്റ് ഒരു ശാപമോ അനുഗ്രഹമോ ആണ് സാങ്കേതികവിദ്യ ഒരു ശാപമോ അനുഗ്രഹമോ ആണ് അതിനാൽ ആധുനിക കണ്ടുപിടുത്തങ്ങൾ കമ്പ്യൂട്ടറിനെക്കുറിച്ചും മറ്റും സംസാരിക്കുന്നു അതിനാൽ റെഡിമെയ്ഡ് വിഷയങ്ങൾ ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് അത് മനപാഠമാക്കാനും തുടർന്ന് ചെറിയ പ്രഭാഷണങ്ങൾ നടത്താനും കഴിയും എന്നാൽ നിങ്ങൾ ഒരു പ്രൊഫഷണലായി മാറുകയും ആളുകൾ നിങ്ങൾക്ക് വിഷയങ്ങൾ നൽകുമെന്ന് കാത്തിരിക്കുന്നതിനുപകരം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള വിഷയങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ സന്നദ്ധപ്രവർത്തനം നടത്തുകയും ഞാൻ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു ഈ മേഖല പലർക്കും പരിചിതമല്ല ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണവും ചെറിയ പ്രഭാഷണവും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആഖ്യാന വൈദഗ്ദ്ധ്യം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എങ്ങനെ ആഖ്യാന വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുന്നു ഇത് ഒരു കഥ പറയുന്നതുപോലെയാണ് വാസ്തവത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും കഥകൾ പറയാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ആഖ്യാന വൈദഗ്ദ്ധ്യം വർദ്ധിപ്പിക്കും അതിനാൽ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എപ്പോൾ സസ്പെൻസ് തകർക്കണം എങ്ങനെ നിർമ്മിക്കണം എന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു സസ്പെൻസ് കഥയുണ്ടെങ്കിൽ അത് ആഖ്യാന വൈദഗ്ധ്യമാണ് അതിനാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുക ഒരു കഥ പറയുക എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന കല വികസിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്രസംഗം നൽകുമെന്ന് ഉറപ്പാക്കുക ഒരിക്കലും ഒരു ഉദ്ദേശ്യമില്ലാതെ സംസാരിക്കരുത് ഉപയോഗശൂന്യവും അർത്ഥശൂന്യവുമായ സംസാരം നൽകരുത് അത് ജനപ്രീതി നേടാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് പ്രേക്ഷകർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും ഒരു ഉദ്ദേശ്യത്തോടെ മാത്രം സംസാരിക്കും നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഒരു വാദം കെട്ടിപ്പടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അനുകൂലമായി വാദിക്കുമ്പോൾ രസകരമായ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക അതിനാൽ അത് കൂടുതൽ രസകരമായിരിക്കും മികച്ച പ്രേക്ഷകർക്ക് അവരെ ഓർമ്മിക്കാനും വ്യക്തിപരമായ കഥകളുമായി ബന്ധിപ്പിക്കാനും അത് നിങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ഇതുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നും പറയാൻ കഴിയും നിങ്ങൾ മറ്റ് പല ആളുകളെയും ബന്ധപ്പെടുത്തുന്ന രീതി നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവവുമായി ബന്ധപ്പെടുത്താൻ കഴിയും അവർക്ക് അത് നന്നായി മനസ്സിലാക്കാനും രസകരമായ വസ്തുതകൾ ഉപയോഗിക്കാനും കഴിയും വാസ്തവത്തിൽ ഇതിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് നർമ്മത്തിൻറെ ഉപയോഗം ഇടയ്ക്കിടെയുള്ള നർമ്മം ഇടയ്ക്കിടെയുള്ള നർമ്മബോധം എന്നിവ പ്രേക്ഷകരെ ഏകതാനത തകർക്കാൻ പ്രേരിപ്പിക്കും വാസ്തവത്തിൽ അഭിമുഖത്തിൽ പോലും നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ ഒരു തമാശ നൽകാൻ കഴിയുമെങ്കിൽ അഭിമുഖ പാനലിലെ ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പിക്കാം കാരണം അത് നിങ്ങളുടെ മറ്റൊരു വശം നോക്കാൻ അവരെ പ്രേരിപ്പിക്കും അത് സാധാരണയായി അവർ അവഗണിച്ചു അവതരണത്തിന്റെ കാര്യത്തിലും നിങ്ങൾ നർമ്മം ഉപയോഗിക്കുമ്പോൾ അവർ വിചാരിച്ചു നിങ്ങൾ വളരെ ഗൌരവമുള്ള ഒരു പ്രഭാഷകനാണ് നിങ്ങൾ വളരെ ഗൌരവമുള്ള ശാസ്ത്രജ്ഞനാണ് തുടർന്ന് ഒരു ഗവേഷകനാണ് നിങ്ങൾ വളരെ ഗൌരവമേറിയ ആശയങ്ങൾ നൽകുന്നു എന്നാൽ പെട്ടെന്ന് നിങ്ങൾ അല്പം അഭിനയം പിന്തുടരുന്നു ഒരു രസകരമായ വസ്തുത നൽകുന്നു രസകരമായ കഥ അതിനാൽ ആളുകൾ നിങ്ങളുമായി മികച്ച രീതിയിൽ ബന്ധപ്പെടാൻ സഹായിക്കും മൊത്തത്തിലുള്ള ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ഈ അവസാന രണ്ട് പോയിന്റുകൾ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് മൈക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സാഹചര്യത്തിൽ അഭിമുഖീകരിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രസംഗം നടത്തണം നിങ്ങളുടെ ശബ്ദം പ്രൊജക്റ്റ് ചെയ്യണം അതായത് നിങ്ങൾ അവരുടെ മുന്നിൽ അഭിനയിക്കുന്നതുപോലെ കുറച്ചുകൂടി ഉച്ചത്തിൽ നിങ്ങൾ ഒരു വേദിയിലുള്ളതുപോലെ അവരുടെ മുന്നിൽ പ്രവർത്തിക്കുക തുടർന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ആ ദിവസങ്ങളിൽ മൈക്രോഫോണുകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ അഭിനേതാക്കൾ അലറണം അതിനാൽ നിങ്ങൾ സാധാരണയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കണമെന്ന് സങ്കൽപ്പിക്കുക പക്ഷേ അത് ആദ്യം അസാധാരണമായി തോന്നും പക്ഷേ നിങ്ങളുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കില്ല കാരണം വാസ്തവത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നത് പ്രേക്ഷകരെ നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് ശബ്ദം ഉയർത്തുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന പ്രഭാഷകരുണ്ട് അതിനാൽ പ്രേക്ഷകരിൽ ആർക്കും ഉറങ്ങാൻ കഴിയില്ലെന്ന് അവർ ഉറപ്പാക്കുന്നു അത് വളരെ ഉച്ചത്തിലാണ് ആ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാൽ ഞാൻ പറയുന്ന കാര്യം അവർക്ക് കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിലായിരിക്കണം എന്നതാണ് അത് വ്യക്തമാണ് പക്ഷേ നിങ്ങൾ മൃദുവായി സംസാരിക്കുകയാണെങ്കിൽ അവർ ചെയ്യും അതിനാൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്ര മൃദുവായി സംസാരിക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കും ആദ്യ വരിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം അത് കേൾക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ അവർ അസ്വസ്ഥരാകുകയും പിന്നീട് അവർ വ്യതിചലിക്കുകയും അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഒരു വശത്ത് വ്യക്തമായി ആശയവിനിമയം നടത്തുക എന്നാൽ മൊത്തത്തിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഒരു പൊതുപ്രസംഗമോ വാക്കാലുള്ള അവതരണമോ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത ഒരു അവതരണം നൽകുന്നതിൽ അർത്ഥമില്ലെന്ന് ഓർക്കുക അതിനാൽ അത് അവരുടെ തലയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ വളരെ താഴ്ന്നതോ അല്ലെങ്കിൽ വളരെ സങ്കീർണ്ണമായ പദാവലി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതിനാൽ നിങ്ങൾ അത് സങ്കീർണ്ണമാക്കുന്നുണ്ടെങ്കിൽ ഒരു ലളിതമായ ആശയം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ സങ്കീർണ്ണമായ ഒരു സങ്കീർണ്ണമായ വിഷയം പോലും എടുക്കുന്ന മറ്റുള്ളവർ നിങ്ങൾ പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ ലളിതമായ ചിന്തകൾ ലളിതമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു തുടർന്ന് അത് മനസിലാക്കാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ലളിതമായ വഴികൾ അവർ കണ്ടെത്തുന്നു അതാണ് നിങ്ങൾ പിന്തുടരേണ്ട രീതി അതുവഴി പ്രേക്ഷകർക്ക് നിങ്ങളെ പൂർണ്ണമായും ഫലപ്രദമായും മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും ഇത് മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ജനപ്രിയ പ്രഭാഷകനാകും ഒടുവിൽ നിങ്ങൾ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എബ്രഹാം മാസ്ലോയെപ്പോലുള്ള മികച്ച സൈക്കോളജിസ്റ്റ് സ്വയം ആസ്വദിക്കുക നമ്മുടെ ജീവിതത്തിൽ പീക്ക് അനുഭവങ്ങൾക്കുള്ള അവസരങ്ങളുണ്ടെന്ന് അവർ പറയുന്നു അതിനാൽ നിങ്ങളുടെ പ്രകടനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ആസ്വദിക്കുമ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ പ്രകടനം ആസ്വദിക്കുകയും തുടർന്ന് സർഗ്ഗാത്മകത പുലർത്തുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അത് വേർപെടുത്താൻ ശ്രമിക്കുക വാക്കാലുള്ള അവതരണത്തിലും പൊതുപ്രസംഗത്തിലും നിങ്ങൾ പതുക്കെ സ്വയം വികസിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശൈലി വികസിപ്പിക്കുക കാര്യങ്ങൾ വിവരിക്കുന്നതിനുള്ള നിങ്ങളുടെ സ്വന്തം ശൈലി തമാശകൾ പറയാനുള്ള നിങ്ങളുടെ സ്വന്തം ശൈലി നിങ്ങളുടെ സ്വന്തം അവതരണ ശൈലി സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിനുള്ള നിങ്ങളുടെ സ്വന്തം ശൈലി എന്നിവ വികസിപ്പിക്കുക അതിനാൽ നിങ്ങളുടെ ശൈലി ഉണ്ടാക്കുക തുടർന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആരാധകർ ഉണ്ടാകും ആളുകൾ നിങ്ങളുടെ സ്വന്തം അതുല്യമായ ശൈലി ഇഷ്ടപ്പെടും തുടക്കത്തിൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് നിങ്ങൾ അൽപ്പം ലജ്ജിക്കും പക്ഷേ നിങ്ങൾക്ക് സ്വാഭാവികമായി വരുന്നതെന്തും ചെയ്യുക അതിനാൽ അത് നിങ്ങളുടെ യഥാർത്ഥ ആന്തരിക പ്രതിഭയായിരിക്കാം ആ കഴിവ് പുറത്തെടുക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആരാധകർ ഉണ്ടാകുകയും നിങ്ങൾക്ക് ആ പദവി ലഭിക്കുകയും ചെയ്യും തുടക്കം മുതൽ തന്നെ ദൃശ്യവൽക്കരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ച് നിങ്ങളോട് വളരെയധികം സംസാരിച്ചതിന് ശേഷമുള്ള അവസാന ചിന്ത ഞാൻ നിങ്ങൾക്ക് മതിയായ ഇൻപുട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ആയോധനകലയുടെ സൂപ്പർസ്റ്റാർ ബ്രൂസ് ലീയുടെ പ്രശസ്തമായ അറിയുന്നത് മാത്രം പോരാ എന്ന് സൂപ്പർസ്റ്റാർ ബ്രൂസ് ലീ പറയുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പൊതുപ്രസംഗത്തെക്കുറിച്ച് എല്ലാം അറിയാം പക്ഷേ അതിന് അറിവ് മാത്രം പോരാ അനുഭവം കൂടെ വേണം നിങ്ങളുടെ അവതരണത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം പോരാ അത് പര്യാപ്തമല്ല ഉദ്ധാഹരണത്തിന് നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെന്ന് കരുതുക നിങ്ങൾ ലൈബ്രറിയിൽ പോയി ടൺ കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നു നീന്തലിനെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നീന്തൽക്കുളത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അതിലേക്ക് ചാടിയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇല്ല എന്ന് നിങ്ങൾ നിങ്ങൾ പറയുകയാനെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നീന്തലിനെക്കുറിച്ചുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളെ സഹായിക്കില്ല സൈക്കിൾ ഓടിക്കുന്നതിനെക്കുറിച്ചുള്ള 20000 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും സീറ്റിൽ ഇരുന്ന് ഹാൻഡിൽബാർ പിടിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ പൊതുപ്രസംഗത്തിൻ്റെ അതേ കാര്യം തന്നെ നിങ്ങൾ എങ്ങനെ സൈക്ലിംഗ് പഠിക്കും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒരു കലയാണ് നിങ്ങൾ അത് പരിശീലനത്തിലൂടെ മാത്രമേ വികസിപ്പിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏത് അളവിലുള്ള അറിവും മതിയാകില്ല പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോകളുടെ ഉദ്ദേശ്യം എന്റെ പ്രഭാഷണങ്ങളുടെ ഉദ്ദേശ്യം പ്രത്യേകിച്ചും ഒരു സർട്ടിഫിക്കറ്റ് നേടാനും ആളുകൾക്ക് പ്രദർശിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുകയല്ല ഈ അസൈൻമെന്റുകളെല്ലാം ചെയ്യുക എന്നാൽ ഈ സർട്ടിഫിക്കറ്റിനും അസൈൻമെന്റിനും അപ്പുറം നിങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആ അർത്ഥത്തിൽ പഠിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ വരെ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ നിങ്ങൾ ഒരു ചുവട് വയ്ക്കുകയും തുടർന്ന് കൂടുതൽ ചുവടുകൾ വയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ സന്നദ്ധത മതിയാകില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ അത് ചെയ്യണം അത് പരിശീലിക്കുക അത് വളരെ പരിശീലനം ലഭിച്ചതായിത്തീരുന്നു പ്രൊഫഷണൽ പബ്ലിക് സ്പീക്കർക്ക് വാക്കാലുള്ള അവതരണത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല ഏത് അവസരത്തിലും ചാൻസ് ജമ്പ് സ്വീകരിക്കുക എല്ലാ ടിപ്പുകളും ഉപയോഗിക്കുക വാക്കാലുള്ള അവതരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ഫലപ്രദമായ ആശയവിനിമയക്കാരനാകുമെന്ന് ഞാൻ വളരെ വേഗം നൽകി ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു